സ്വാഗതം പൊതു വിദ്യാഭ്യാസ രംഗത്ത് വൈകാരിക ബുദ്ധിയുടെ പ്രയോജനം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് നമ്മുടെ എഴുത്ത് കഴിവുകൾ അവതരണ കഴിവുകൾ പ്രശ്ന പരിഹാരം ധാർമ്മിക പെരുമാറ്റം ടീം ജോലിയുടെ ഫലപ്രാപ്തി എങ്ങനെ മെച്ചപ്പെടുത്തുന്നു ടീം ജോലിയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചും നാം ചർച്ചചെയ്തു കഴിഞ്ഞു ഒപ്പം ആഗോള പശ്ചാത്തലത്തിൽ ആഗോള സമാധാനവും സമൃദ്ധിയും കൈവരിക്കുന്നതിനുള്ള സാധ്യത എങ്ങനെ വൈകാരിക ബുദ്ധി സൃഷ്ടിക്കുന്നു എന്നും നാം കണ്ടു കഴിഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്കാരങ്ങളിൽ നിന്നോ ഉള്ള ആളുകളുമായി പരസ്പരം സംവദിക്കാനും മനസ്സിലാക്കുന്നതിനുള്ള സാധ്യത വൈകാരിക ബുദ്ധി സൃഷ്ടിക്കുന്നു വൈകാരിക ബുദ്ധി എങ്ങനെ സാംസ്കാരിക അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു ചെന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസിലാക്കുന്നതിനു൦ ബന്ധങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കുന്നതിനും അതുവഴി അന്താരാഷ്ട്ര ധാരണയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സാധ്യമാക്കുന്നതിനും സഹായിക്കുന്നു അതോടൊപ്പം നമ്മളുടെ ആജീവനാന്ത പഠനത്തിന് വൈകാരിക ബുദ്ധി എങ്ങനെ സഹായിക്കുന്നുവെന്നും നമ്മൾ ചർച്ചചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പഠനംവിദ്യാഭ്യാസം മനുഷ്യന്റെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു പരിശീലനത്തിന്റെ ഫലമായി ഒരു ദിവസം നിങ്ങൾ ഉയർന്ന തോതിലുള്ള വൈകാരിക ബുദ്ധി പ്രകടമാക്കുകയും അടുത്ത ദിവസം നിങ്ങൾ താഴേയ്ക്ക് പോകുന്നു എന്നല്ല വൈകാരിക ബുദ്ധി ഒരു തുടർച്ചയായ പ്രക്രിയയാണ് നമ്മൾ നമ്മുടെ വൈകാരിക ബുദ്ധി പെരുമാറ്റ രീതി എന്നിവയെ കുറിച്ച് ഇടക്കൊക്കെ പ്രതികരണം ഫീഡ്ബാക്ക് തേടേണ്ടതുണ്ട് ഒരുപക്ഷേ നമ്മളുടെ പരിശീലകർ ഉപദേഷ്ടാക്കൾ അധ്യാപന സഹായികൾ അധ്യാപകർ എന്നിവർക്ക് നമ്മുടെ വൈകാരിക ബുദ്ധിയിലെ വളർച്ചയെയും വികാസത്തെയും കുറിച്ച് ശരിയായ തരത്തിലുള്ള പ്രതികരണം ഫീഡ്ബാക്ക് നൽകാൻ സാധിക്കും വൈവിധ്യത്തെയും വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളെയും വിലമതിക്കാൻ വൈകാരിക ബുദ്ധി നമ്മളെ സഹായിക്കുന്നു ഞാൻ വൈകാരിക ബുദ്ധിയിലൂടെ വൈവിധ്യം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു എൺപതുകളുടെ അവസാനത്തിലാണ് ഇൻഡോർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് വൈവിധ്യമാർന്ന ടീമിനെ കൈകാര്യം ചെയ്യുന്നതിൽ വൈകാരിക ബുദ്ധിയുടെ പങ്ക് ഈ ലേഖനം എടുത്തുകാണിക്കുന്നു ഓർഗനൈസേഷനുകളിൽ വൈവിധ്യമാർന്ന ടീമുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഈ പ്രബന്ധം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടിസ്ഥാനപരമായി ഒരു ടീമിന്റെ വൈവിധ്യമെന്നാൽ വ്യത്യസ്ത സംസ്കാരം നിറ൦ ജാതി ഭാഷകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ ആണ് അതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു ടീമിൽ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത പെരുമാറ്റംവ്യത്യസ്ത മനോഭാവങ്ങൾ വ്യത്യസ്ത പ്രതീക്ഷകൾ സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റരീതി വ്യത്യസ്തവും അത് മറ്റുള്ളവരുടെ പ്രതീക്ഷക്ക് ഒത്തു പോകുന്നതുമല്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ നിരവധി തെറ്റായ ആശയവിനിമയങ്ങളും തെറ്റിദ്ധാരണകളും സംഭവിക്കുന്നു അതിനാൽ പലപ്പോഴും ഈ വൈവിധ്യം ആളുകൾ അല്ലെങ്കിൽ ടീം അംഗങ്ങൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നു പക്ഷേ അതിന്റെ പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ വൈകാരിക ബുദ്ധിമാനായ നേതാവ് എല്ലായ്പ്പോഴും വ്യത്യസ്ത ആളുകളിൽ നിന്നുള്ള വ്യത്യസ്ത ആശയങ്ങൾ സ്വാംശീകരിക്കുന്നു അത് കൊണ്ട് തന്നെ എന്റെ ടീമിൽ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ കൂട്ടായ ബുദ്ധി നൽകുന്ന നേട്ടങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേതാവ് പറയുന്നത് അവിടെയാണ് അതിനാൽ അവരുടെ വ്യത്യാസങ്ങൾ ഉപയോഗപ്പെടുത്താൻ എനിക്ക് താൽപ്പര്യമില്ല ടീം ജോലിയുടെ വിജയത്തിന് കാരണമാകുന്ന സമാന കഴിവുകൾ ഉപയോഗിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു ആളുകളെ അവരുടെ വികാരങ്ങൾ ഉദ്ദേശ്യങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ നന്നായി മനസ്സിലാക്കാൻ വൈകാരിക ബുദ്ധി നമ്മളെ സഹായിക്കുന്നു അതിനാൽ ഒരിക്കൽ ഒരാളുടെ വൈകാരിക നില നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ആവശ്യമായ സേവനങ്ങൾ അവരാൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും ഇങ്ങനെയാണ് വൈവിധ്യം നിയന്ത്രിക്കാൻ നിങ്ങളെ നിങ്ങളുടെ വൈകാരിക ബുദ്ധി സഹായിക്കുന്നത് കാണുക സ്ലൈഡ് സമയം 0515 പരീക്ഷണാടിസ്ഥാനത്തിൽ യുണൈറ്റഡ് സ്റ്റേസിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൈകാരിക ബുദ്ധി എന്ന ആശയം കൊണ്ട് വരികയും വിദ്യാഭ്യസ രംഗത്ത് പുത്തൻ ദർശനങ്ങൾക്ക് കാരണമാകാൻ ഇത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഉന്നതവിദ്യാഭ്യാസത്തിൽ ഒരു പുതിയ ദർശനം വൈകാരിക ബുദ്ധി എങ്ങനെ സൃഷ്ടിക്കും ഈ ചോദ്യം ലോകമെമ്പാടും വളരെയധികം വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ലോകമെമ്പാടുമുള്ള ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വൈകാരിക ബുദ്ധി ആവശ്യമാണ് എന്ന ഉത്തരത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ ഐഐടിയിലും എൻഐടിയിലും ഐഐഎമ്മിലും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് സർവകലാശാലാ വിദ്യാഭ്യാസത്തിലും വൈകാരികമായി സ്ഥിരതയുള്ള വിദ്യാർത്ഥികളെ എങ്ങനെ വളർത്താം വിദ്യാർത്ഥികളുടെ വൈകാരിക പക്വത എങ്ങനെ വർദ്ധിപ്പിക്കാം അതുവഴി അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അവരുടെ വ്യക്തിഗത ജീവിതത്തിലും തൊഴിൽ രംഗത്തും ഒരേ പോലെ ശോഭിക്കാൻ വൈകാരിക ബുദ്ധിയെ എങ്ങനെ വളർത്തി എടുക്കാം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് വൈകാരിക ബുദ്ധിക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കൂടുതൽ മുൻ തൂക്കം അല്ലെങ്കിൽ മികച്ച പദവി നേടി കൊടുക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പരിശോധിച്ചാൽ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് തിരിച്ചറിയാം അധ്യാപകൻ പഠിതാവിനെ വിദ്യാർഥിയെ ശാക്തീകരിക്കുന്നു വൈകാരിക ബുദ്ധിയുടെ ഉപയോഗത്തിലൂടെ ക്ലാസ് റൂം സാഹചര്യങ്ങളിൽ പഠിതാവിനെ എങ്ങനെ ശാക്തീകരിക്കാം വികാരത്തെ എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്താം അതിനാൽ അവരുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണിത് കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വൈരുദ്ധ്യമുണ്ടാകാൻ കാരണം ആശയവിനിമയം മാത്രമാണ് മനപൂർവമല്ലാത്ത ആശയവിനിമയം മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്ന് നാം മനസിലാക്കണം ചിലപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ സംസാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് ഈ തെറ്റുകൾ വഴി നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ നമ്മൾ അഹങ്കാരത്തോടെ ആശയവിനിമയം നടത്തുമ്പോൾ അത് ഒരു തെറ്റായി മാറുകയും ഇത് കാരണം നാം പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു ഇതും ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്നു അതിനാൽ എങ്ങനെ സത്യസന്ധമായും ആദരവോടെയും ആശയവിനിമയം നടത്താം അതുവഴി സുഖസൌകര്യങ്ങളു൦ അവസരങ്ങളു൦ തുറന്ന ചർച്ചകൾക്കു൦ പഠനത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ശാക്തീകരിച്ച പഠനത്തിന്റെ അർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നത് പഠിതാവിനെ ശാക്തീകരിക്കുന്നത് പഠിതാവിന് ആശയവിനിമയത്തിലൂടെ പ്രയോജനം നേടാൻ കഴിയുന്നത് രണ്ടാമതായി ബുദ്ധിക്ക് മാറ്റം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ അതെ അപ്പോൾ വൈകാരിക ബുദ്ധി എത്രത്തോളം ഫലപ്രദമായി മാറ്റത്തെ കൈകാര്യം ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിക്കുമ്പോൾ അത് സമ്മർദ്ദം അസ്വസ്ഥതകൾ എന്നിവ സൃഷ്ടിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു സ്ഥാപനത്തിൽ ആരംഭിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിൻറെ ഫലമാണ് അതിനാൽ അസ്വസ്ഥതകൾ നേരിടുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നമ്മളെ ശാന്തമാക്കാൻ വൈകാരിക ബുദ്ധി സഹായിക്കുന്നു അങ്ങനെയാണ് ഇത് നമ്മളിൽ കോപ്പിംഗ് തന്ത്രം സൃഷ്ടിച്ചെടുക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള മാറ്റത്തെയും ഫലപ്രദമായി നേരിടാൻ നമ്മളെ സഹായിക്കും ഉദാഹരണമായി ക്ലാസ് റൂം സാഹചര്യങ്ങളിൽ വ്യസ്തസ്ഥ ആളുകൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ദേശീയവികസനത്തെക്കുറിച്ചോ മാനവികതയുടെ വളർച്ചയ്ക്കായി മനശാസ്ത്രത്തിന്റെ പ്രാധാന്യം വിഷയത്തെ ആസ്പദമാക്കി ഒരു സ്കിറ്റ് നടത്താൻ ഞാൻ ഒരു ഗ്രൂപ്പിന് ചുമതല നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഞാൻ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് മാറ്റുമ്പോൾ വിദ്യാർത്ഥികൾ പെട്ടെന്ന് എന്നെ സമീപിക്കുന്നു അവർക്ക് അവരുടെ ഗ്രൂപ്പിൽ കംഫർട്ട് സോണുകൾ ഉള്ളതിനാൽ പെട്ടെന്നുള്ള മാറ്റം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ചില ആളുകളുമായി സ്വതന്ത്രമായി ആശയവിനിമയം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു അത് അവരുടെ വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നു അതുകൊണ്ടാണ് അവർ ആ കൂട്ടത്തിൽ സുഖമായിരിക്കുന്നത് ഈ പ്രതികരണം മാറ്റത്തിനോടുള്ള പ്രതിരോധമാണ് എന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രയോജനം നേടാൻ പോകുന്നതെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഗ്രൂപ്പുകൾ മാറാൻ തയാറാകുന്നു ഇങ്ങനെ അവരിൽ മാറ്റത്തെ അംഗീകരിക്കാൻ ഉള്ള കഴിവ് വികസിക്കുന്നു മൂന്നാമത്തേത് എങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പിനുള്ളിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്റെ ക്ലാസ്സിൽ ഒരു പ്രത്യേക കൂട്ടം വിദ്യാർത്ഥികൾ ഒരു സെമസ്റ്ററിലുടനീളം ഒരുമിച്ച് ഇരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇടത് വശത്തു ഇരിക്കുന്നവർ അടുത്ത ആഴ്ച വലതുവശത്തേക്ക് മാറും സർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് അവരുടെ കടുത്ത പ്രതിരോധം കാണാം ഞങ്ങളുടെ ചങ്ങാതിമാരോടൊപ്പം ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് സുഖമുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്നു മറ്റുള്ളവരെ മനസിലാക്കാനും ബന്ധപ്പെടാനും നിങ്ങൾ അവസരം സൃഷ്ടിക്കുന്നില്ല എന്നും നിങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളുമായി കൂടുതൽ ഇടപഴകുന്നത്തിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് അറിയാനും വൈവിധ്യങ്ങൾ മനസിലാക്കാനും കഴിയുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ അത് മനസിലാക്കുന്നില്ല ഒരു ക്യാമ്പസ്സിൽ രസതന്ത്രം കമ്പ്യൂട്ടർ സയൻസ് മാനേജുമെന്റ് ഹ്യൂമാനിറ്റീസ് തുടങ്ങി വിവിധ പഠന വിഭാഗത്തിൽ നിന്നുള്ള വിദ്ധാർഥികൾ ഉണ്ട് അതിനാൽ അവർ പരസ്പരം ഇടപഴകാൻ ശ്രമിക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ മറ്റ് ആളുകൾ മുതലായവയെക്കുറിച്ചും അവർ കൂടുതലറിയുന്നു അങ്ങനെഅവർ തങ്ങളിലുള്ള വൈവിധ്യം വികസിക്കുന്നു നല്ലൊരു പഠിതാവ് മനുഷ്യന്റെ വികാരങ്ങളും സങ്കല്പങ്ങളും വിവിധ സംസ്കാരങ്ങളും മനസിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു വിവരമുള്ള പഠിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പഠിതാവ് മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് എത്രമാത്രം നന്നായി അറിവുള്ളവനെന്ന് കാണിക്കുന്നു സംസ്കാരങ്ങൾ മാറുന്നതനുസരിച്ചു ആശയവിനിമയ രീതികളിൽ മാറ്റം ഉണ്ടാവും പരസ്പരം അഭിവാദ്യം ചെയ്യാൻ കൈ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് ലോകത്തെങ്ങും ഉണ്ട് എന്നാൽ ഒരു അമേരിക്കക്കാരൻ കൈ കുലുക്കുന്ന പോലെ അല്ല യുറോപ്യൻ കൈ കൊടുക്കുക ഇന്ത്യക്കാർ വളരെ ഇറുകിയ ഹസ്തദാനം ചെയ്യുന്നവരാണ് അവരുമായി ഇടപഴകുന്ന വ്യക്തി വെറും ഒരു കൈ കുലുക്കിൽ ഹസ്തദാനം ഒതുക്കിയത് അവരുമായി സംസാരിക്കുന്ന വ്യക്തിക്ക് ഒരു താൽപര്യക്കുറവ് തോന്നാം അതിനാൽ നമ്മുടെ ഓരോ പെരുമാറ്റ രീതിയും അവർ കൈമാറുന്നത് ഓരോരോ സന്ദേശങ്ങളാണ് ചിലപ്പോൾ ഒരു ഹസ്തദാനം ആകും രണ്ട് ബിസിനസ് പങ്കാളികൾക്കിടയിൽ അവർക്ക് താൽപ്പര്യമില്ല അല്ലെങ്കിൽ ബിസിനസ്സ് നടത്താൻ താൽപ്പര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളും ഭാവിയിലെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു നാം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മാത്രമേ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പെരുമാറുന്നത് അവർ എങ്ങനെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസിലാക്കാൻ സാധിക്കൂ വൈകാരിക ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ സ്വയം മനസിലാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെക്കുറിച്ചുള്ള അവബോധം വികസിപ്പിച്ചെടുക്കാൻ കഴിയൂ അങ്ങനെയാണ് വൈവിധ്യമാർന്ന വ്യക്തികളും അനുഭവങ്ങളും ഒരാളുടെ വൈകാരിക ബുദ്ധിയുടെ മണ്ഡലത്തെ സമ്പന്നമാക്കുന്നത് ഉത്തരവാദിത്തമുള്ള പഠിതാവാരാണ് ഒരു പഠിതാവെന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമെന്താണ് നിർവഹിക്കേണ്ട കടമയെന്താണ് സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആഴത്തിലുള്ള സ്വയം ധാരണയും മറ്റുള്ളവരുടെ സങ്കീർണ്ണമായ വ്യക്തിത്തങ്ങളോട് ആദരവും കാണിക്കേണ്ടത് മറ്റുള്ളവരുടെ സംസ്കാര സ്വഭാവങ്ങൾ മനസിലാക്കാതെ പോയാൽ നമ്മൾക്കെന്ത് സംഭവിക്കും പല വിദ്യാർത്ഥികളും മറ്റുള്ളവരെ വിമർശിക്കുന്നു മറ്റൊരാൾക്ക് വ്യത്യസ്തമായ വസ്ത്രധാരണരീതികളുണ്ട് അത് ചിലപ്പോൾ മറ്റു ചിലർക്ക് അസാധാരണമാണെന്ന് തോന്നാം മറ്റൊരാൾക്ക് വ്യത്യസ്തമായ ഹെയർകട്ട് ഉണ്ട്അത് ആ വ്യക്തിയുടെ സ്വത്വത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ മറ്റ് വിദ്യാർത്ഥികളുടെ സ്വഭാവ രീതികൾ മനസിലാക്കാതെ പരിഹാസ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് അവർക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു അതിനാൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പെരുമാറ്റം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് അവരുടെ പക്വത വർധിപ്പിക്കുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അനാദരവ് കാണിക്കാതെ അവരോട് ബഹുമാനത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുന്നു നാം മറ്റുള്ളവരുടെ ചരിത്രങ്ങളും സംസ്കാരങ്ങളും മനസിലാക്കുന്നതിലൂടെ അവരുമായി നന്നായി പെരുമാറാൻ നമ്മെ പ്രാപ്തരാക്കുന്നു വിദ്യാർത്ഥികളുടെ വിജയത്തിന് സുപ്രധാനമായ ചില കഴിവുകൾ റോബർട്ട് ബാരൺ കണ്ടെത്തുകയും അതിനെ വൈകാരിക ഘടകങ്ങൾ എന്ന് വിളിക്കുകയും ചെയ്തു ഒരാൾക്ക് അവരുടെ വികാരങ്ങളെ എത്ര കൃത്യമായി വിഭജിക്കാൻ കഴിയും അവരുടെ വികാരങ്ങളെ എത്ര കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നുവെന്ന് കരുതുക നിങ്ങളുടെ വിശപ്പ് എങ്ങനെ നിയന്ത്രിക്കാം അത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മറ്റുള്ളവരോട് നിങ്ങൾ കോപം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ ഫലം എന്തായിരിക്കാം വിദ്യാർഥികൾ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് അവരുമായി ഇത്തരം കാര്യങ്ങൾ ആണ് ആശയ വിനിമയം നടത്തേണ്ടത് മറ്റൊന്ന് ആത്മാഭിമാനമാണ് മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ വിലമതിക്കും നിങ്ങൾ സ്വയം എങ്ങനെ വിലമതിക്കും സ്വയം എന്നത് നമ്മുടെ ആന്തരികവും ബാഹ്യ വ്യക്തിഗത സ്വഭാവങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പലപ്പോഴും നമ്മളാണ് ഏറ്റവും മികച്ചതെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ സ്വയം പുകഴ്ത്തുമ്പോൾ ആളുകൾ പറയു൦ ആ വ്യക്തിയാണ് ഏറ്റവും മോശം ഒരു നല്ല വ്യക്തിഗത വിശ്വാസം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് സന്തുലിതമാക്കാൻ കഴിയൂ മറ്റുള്ളവർ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും അമിത മൂല്യനിർണ്ണയവും വിശ്വാസവും കാരണം നിങ്ങൾ തെറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അളക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ അത് അറിയില്ലെങ്കിലും നിങ്ങളുടെ ശക്തിയെയും ബലഹീനതയെയും എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ അമിതമായി മൂല്യനിർണയം ചെയ്യുമ്പോൾ അഥവാ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് തോന്നാം എന്നാൽ നിങ്ങളെ സ്വയം ചെറുതായി കാണുമ്പോൾ മറ്റുള്ളവരുമായി തുല്യനല്ലെന്ന് തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണ് പക്ഷേ നിങ്ങളുടെ സ്വയം വിലയിരുത്തൽ നല്ലതല്ല ആത്മാഭിമാനം ചിലപ്പോൾ ജീവിതത്തിൽ പോസിറ്റീവ് മൂല്യങ്ങൾ കൊണ്ടുവരുന്നു ചില സമയങ്ങളിൽ അമിത വിലയിരുത്തൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അതിനാൽ നാം നമ്മെ തന്നെ ബഹുമാനിക്കാനും ആദരിക്കാനും ശീലിക്കുക നാം ഒന്ന് അറിയേണ്ടതുണ്ട് നമ്മുടെ മാനസിക ആരോഗ്യം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ തന്നെ ഒരു നല്ല വ്യക്തിത്വം വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് നമ്മുടെ സദ്ഗുണങ്ങൾ മൂല്യങ്ങൾ എന്നിവയാണ് നമ്മുടെ നല്ല വ്യക്തിത്വം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നുവെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായി മൂന്ന് തരത്തിലുള്ള ആശയവിനിമയങ്ങളുണ്ട് ആക്രമണാത്മക൦ വിധേയത്വ൦submissive നിശ്ചയദാർഢ്യം അതിനാൽ ആക്രമണോത്സുകമോ വിധേയത്വമോ സാമൂഹികമായി സ്വീകാര്യമോ മാന്യമോ അല്ല എന്നാൽ നിശ്ചയദാർട്യപരമായ രീതികൾ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്നു ഒരാളുടെ ഉറച്ച നിലപാടിനെ ആക്രമണാത്മകതയായി കണക്കാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മുഖത്ത് അടിച്ചപോലെ സംസാരിക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല മുഖാമുഖ ആശയവിനിമയത്തെ ആളുകൾ വളരെ വിലമതിക്കുന്നു വിധേയത്വപരമായ സംസാര രീതിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരു നല്ല ശ്രോതാവാണെങ്കിൽ നിങ്ങളെ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സീനിയേഴ്സിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിലോ ഒരു വ്യക്തിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിലോ ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടെന്ന് നിങ്ങളുടെ സീനിയറുടെ മറു ചോദ്യം പ്രതീക്ഷിക്കാം ഇത് ജൂനിയറുടെ മനസ്സിൽ അസംതൃപ്തി അല്ലെങ്കിൽ നിരാശയുണ്ടാക്കുകയും അത് അവന്റെ വ്യക്തി വികസനത്തിന് പ്രതികൂലമായി ബാധിക്കാം അതിനാൽ ഇത്തരം ഉറച്ച ചോദ്യത്തെക്കുറിച്ച് മറക്കുക എന്നാൽ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ വിദ്യാർത്ഥിക്ക് തന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്കും വികാസത്തിനും ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര പ്രവർത്തനം ഒരുവനെ അവന്റെ കാലിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തനാക്കുന്നു എന്നാൽ ഇന്ത്യയിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ കൂടുതലാണ് അവർക്ക് സ്വാതന്ത്ര്യം കുറവാണ് ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ നിങ്ങൾ കുറഞ്ഞ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവർക്ക് അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ കഴിയില്ല ഇവിടെയാണ് വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം ഇത് നമ്മെ ബോധവൽക്കരിക്കുകയും സ്വയം പര്യപ്തരാകാനും സഹായിക്കുന്നു ഈ കഴിവിനെയാണ് സെല്ഫ് ആക്ടുലൈസേഷൻ എന്ന് വിളിക്കുന്നത് വൈകാരിക ബുദ്ധിയും സെൽഫ് ആക്ച്വലൈസേഷനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മാസ്ലോവിന്റെ ആവശ്യകത ശ്രേണി സിദ്ധാന്തങ്ങൾ Maslow's need hierarchy theoriesപരിശോധിക്കുകയാണെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വൈകാരിക ബുദ്ധി ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാം ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നത് ഒരാളുടെ അടിസ്ഥാന ആവശ്യമാണ് അത് നിറവേറുമ്പോൾ നിങ്ങൾ അടുത്ത മധ്യ ഘട്ടത്തിലേക്ക് കടന്നു ചിന്തിക്കും അവിടെ നിങ്ങളുടെ ആവശ്യം സമൂഹത്തിൽ ആദരവ് ബഹുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നതാകും ഉയർന്ന തലത്തിലുള്ള ചിന്തയിലേക്ക് കടക്കുന്ന വ്യക്തി മറ്റുള്ളവരെ ബഹുമാനിക്കാനും നല്ല മാനസികാവസ്ഥ സൃഷ്ടിക്കാനും ശ്രദ്ധ കൊടുക്കുന്നു വൈകാരിക ബുദ്ധി നമ്മുടെ കലാപരമായ പെരുമാറ്റ൦ മികച്ച പൌരത്വ സ്വഭാവ൦ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത എന്നി കഴിവുകൾ തൊഴിൽ രംഗത്ത് വർധിപ്പിക്കാൻ സഹായിക്കുന്നു സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ സ്വയം തിരിച്ചറിയൽ എന്നാൽ അത് സ്വന്തം വികസനം മാത്രമല്ല മറ്റുള്ളവരുടെ വികസനത്തെയും ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ പെരുമാറ്റം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചക്കും വികസനത്തിനും എങ്ങനെ സഹായിച്ചു ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കഴിവുകളും ഉപയോഗിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നും അതാണ് നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്നത് വൈകാരിക ബുദ്ധിയും ആത്മീയതയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ നേട്ടം കൈവരിച്ചവർ പോലും സ്വയം സന്തുഷ്ടരല്ലഅവർക്ക് സമാധാനമില്ലെന്ന് തോന്നുന്നു അതിനാൽ സെൽഫ് ആക്ച്വലൈസേഷനും ആത്മീയതയും സമാധാനവും സന്തോഷവും ഉറപ്പു വരുത്താൻ ആളുകൾ സ്വീകരിക്കുന്ന രണ്ടു മാർഗങ്ങൾ ആണ് നിങ്ങൾ പരമാവധി വൈകാരിക സംതൃപ്തി നേടുന്നതെവിടെയാണോ അവിടെയാണ് വൈകാരിക ബുദ്ധി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് യാഥാർഥ്യ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു നിങ്ങളുടെ പെരുമാറ്റങ്ങൾ യാഥാർഥ്യ തത്വങ്ങളാൽ എങ്ങനെ നയിക്കപ്പെടുന്നു ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം സമൂഹത്തിലെ നിയമങ്ങളെയും ചട്ടങ്ങളെയും നിങ്ങൾ ശരിക്കും മാനിക്കുന്നുണ്ടോ റിയാലിറ്റി തത്ത്വത്താൽ നിങ്ങൾ നയിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾ ഈ ചോദ്യങ്ങൾക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക സാഹചര്യങ്ങളോട് നിങ്ങൾക് എത്രമാത്രം വഴക്കത്തോടെ പെരുമാറാൻ കഴിയും കേട്ടിട്ടില്ലേ റോമിൽ ആയിരിക്കുമ്പോൾ ഒരു റോമക്കാരനെ പോലെ പെരുമാറണമെന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ സംസ്കാരങ്ങൾ ആളുകൾ ഒക്കെ വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ചു സ്വയം മാറേണ്ടതുണ്ട് സാഹചര്യം നിങ്ങൾക്കായി മാറില്ല അതിനാൽ വിദ്യാർത്ഥികൾക്കിടയിൽ പരിപോഷിപ്പിക്കേണ്ട ഒരു പ്രധാന വൈകാരിക കഴിവുകളിൽ ഒന്നാണ് വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ ഭാവിജീവിതത്തിലെ നേട്ടങ്ങൾക്കായി പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നതിന് സ്ട്രെസ് ടോളറൻസ് ആവിശ്യം ആണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ വൈകാരികമായി സ്ഥിരതയുള്ളവരാണെങ്കിൽ പക്വതയുള്ളവരാണെങ്കിൽ നിങ്ങൾ വൈകാരികമായി ബുദ്ധിമാനാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഇത് നിങ്ങളുടെ സ്ട്രെസ് ടോളറൻസ് സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കും പ്രേരണ നിയന്ത്രണം നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണ ചിന്തിക്കുക എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇത്തരം നിയന്ത്രണം ആവശ്യമായി വരുന്നു നിങ്ങൾ കോപാകുലമായ മാനസികാവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അവസ്ഥയിലാണെന്നോ കരുതുക അപ്പോൾ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ തല കുനിച്ചു താഴേക്ക് നോക്കുക നിങ്ങളുടെ കോപത്തിന്റെ അമ്പത് ശതമാനം ഇല്ലാതാവുന്നത് നിങ്ങൾക് കാണാം ഇത് നിങ്ങളുടെ സമ്മർദ്ദവും കുറക്കുന്നു ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക അതിലൂടെ നിങ്ങളുടെ സമ്മർദത്തെ കുറയ്ക്കുക പക്ഷേ നിങ്ങൾ കോപാകുലരായിയിരിക്കുമ്പോൾ മുഖാമുഖം സമ്പർക്കം മറ്റുള്ളവരുമായി പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപം സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളുടെ വിദ്യാർത്ഥികളെ ബോധവത്കരിക്കുന്നത് ഇങ്ങനെയാണ് ശരിയായ ദിശകളിൽ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്തിക്കുകയും ഏകോപിപ്പിക്കുകയും സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും ഉത്കണ്ഠയും സഹതാപവും നിങ്ങൾ പ്രദർശിപ്പിക്കുക സഹാനുഭൂതി പരിചരണം ആശങ്ക ഇത് ചില നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഭാവി പൌരന്മാർ അവരിൽ സഹാനുഭൂതി നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു അവരാണ് ഭാവിയിൽ നമ്മളെയും ഈ സമൂഹത്തെയും കുടുംബത്തേയും പരിപാലിക്കേണ്ടത് അതിനാൽ സഹാനുഭൂതി അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും